ഇതാണ് വ്യൂ സീരിയലൈസബിലിറ്റി കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റിക്ക് കോൺഫ്ലിക്റ്റ് ഇക്വിവലൻസ് എന്ന ആശയം ആവശ്യമായിരിക്കുന്നതുപോലെ നമുക്ക് വ്യൂ ഇക്വിവലൻസ് എന്ന ആശയം ആവശ്യമാണ് രണ്ട് ഷെഡ്യൂളുകൾ പരസ്പരം തുല്യമാണെങ്കിലും അല്ലെങ്കിലും അതാണ് വ്യൂ ഇക്വിവലൻസിന്റെ ആശയം ഏകദേശം വ്യൂ ഇക്വിവലൻസ് എന്ന ആശയം അവർ എഴുതുന്നത് നിർമ്മിച്ച അതേ കാര്യം അവർ വായിക്കുന്നു അതിനാൽ റീഡിന് ഒരേ വ്യൂ ലഭിക്കും നമ്മൾ കുറച്ചുകൂടി ഔപചാരികമായി നിർവ്വചിക്കും ഇനിപ്പറയുന്നവ സംഭവിക്കുകയാണെങ്കിൽ T1 T2 എന്നീ രണ്ട് ട്രാൻസാക്ഷനുകൾ വ്യൂ ഇക്വിവലൻററാണ് ഓരോ ഡാറ്റ ഇനത്തിനും x ഒരു ഡാറ്റ ഇനം x ഉണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ T1 x ഉം ട്രാൻസാക്ഷൻ T2 x ഉം വായിക്കുന്നു അവർ ഒരേ പ്രാരംഭ മൂല്യം വായിക്കുന്നു രണ്ട് ട്രാൻസാക്ഷനുകളും x ന്റെ പ്രാരംഭ മൂല്യം വായിക്കുന്നു അതാണ് നമ്പർ 1 ഡാറ്റാ ഇനം x ഉണ്ടെങ്കിൽ x ന്റെ അന്തിമ മൂല്യങ്ങൾ ട്രാൻസാക്ഷൻ 1 ലും അവസാനത്തെ റൈററ് ട്രാൻസാക്ഷൻ 2 ലും എഴുതുകയാണെങ്കിൽ അവസാനത്തെ റൈറ്റും ഒന്നുതന്നെയാണ് പ്രാരംഭ റീഡ് ഒന്നുതന്നെയാണ് അവസാനത്തെ റൈററ് ഒന്നുതന്നെയാണ് മൂന്നാമത്തേത് ഡാറ്റ ഇനം x നുള്ള കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റിക്കായി നമ്മൾ പഠിക്കുകയാണ് T1 T2 നിർമ്മിക്കുന്ന മൂല്യം വായിച്ചാൽ അത് രണ്ട് ഷെഡ്യൂളുകളിൽ മാറ്റാൻ പാടില്ല T1 T2 എന്നിവ ഉൾപ്പെടുന്ന രണ്ട് ഷെഡ്യൂളുകൾ ഉണ്ടെങ്കിൽ അവ മാറ്റാൻ കഴിയില്ല അതാണ് വ്യൂ സീരിയലിസബിലിറ്റി എന്ന ആശയം ഈ രണ്ട് ട്രാൻസാക്ഷനുകൾ ഉൾപ്പെടുന്ന രണ്ട് ഷെഡ്യൂളുകൾ S S ഉണ്ട് അവ നമ്മുടെ ധാരണയ്ക്കായി മാത്രമാണ് പൊതുവേ അതിൽ നിരവധി ട്രാൻസാക്ഷനുകൾ ഉൾപ്പെടുത്താം പക്ഷേ രണ്ടും x ന്റെ മൂല്യം വായിക്കുന്ന ഒരേ ട്രാൻസാക്ഷനിൽ നിന്നാണ് ആരംഭിക്കുന്നതെങ്കിൽ അവർ വായിക്കുന്ന അതേ പ്രാരംഭ മൂല്യം അവർക്ക് ലഭിക്കും രണ്ട് ട്രാൻസാക്ഷനുകളും രണ്ട് വ്യത്യസ്ത കാര്യങ്ങൾ വായിച്ചാലും അവയ്ക്ക് ഒരേ പ്രാഥമിക റീഡും ഒരേ അന്തിമ റൈററും ഉണ്ടായിരിക്കണം ഈ രണ്ട് ഷെഡ്യൂളുകളിലും ഒരേ ഫൈനൽ റൈറ്റ് ഉണ്ടായിരിക്കണം തുടർന്ന് ഓരോ x നും ട്രാൻസാക്ഷൻ റഫർ സമയം 0300 T1 ട്രാൻസാക്ഷൻ S ൽ T2 നിർമ്മിക്കുന്ന മൂല്യങ്ങൾ T1 വായിച്ചാൽ ട്രാൻസാക്ഷൻ S' ലും ഇതുതന്നെ സംഭവിക്കണം ഇത് വ്യൂ ഇക്വിവലൻസ് ആണ് ഇനിപ്പറയുന്ന മൂന്ന് വ്യവസ്ഥകൾ സംഭവിക്കുകയാണെങ്കിൽ ഷെഡ്യൂൾ വ്യൂ ഇക്വിവലൻസ് എന്ന് പറയപ്പെടുന്നു അതിനെ ചില സീരിയൽ ഷെഡ്യൂളിന് തുല്യമായ വ്യൂ ആണെങ്കിൽ അതിനെ വ്യൂ സീരിയലൈസ് ചില സീരിയൽ ഷെഡ്യൂളുകളിലേക് ചെയ്യാവുന്നതാണ് ഇത് ഉദാഹരണമാണെന്ന് കരുതുക r1 പിന്നെ w1 പിന്നെ r2 w2 r1 w1 പിന്നെ r2 w2 നമ്മൾ ഇത് പരിശോധിക്കേണ്ടതുണ്ടോ എന്നതാണു ചോദ്യം ഇത് സീരിയലൈസ് ചെയ്യാവുന്നതാണോ അല്ലയോ എന്നതാണ് നമ്മൾ മുമ്പ് ചെയ്തതുപോലെ T1 T2 ഉപയോഗിച്ച് നമുക്ക് ഇത് പരിശോധിക്കാം എന്താണ് T1 T2 ടി 1 ന്റെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് ആദ്യം എഴുതാം അവ r1 w1 പിന്നെ r1 w1 എന്നിവയാണ് തുടർന്ന് T2 ന്റെ ഇത് r2 w2 r2 w2 എന്നിവയാണ് അവർ ആ മൂന്ന് വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് ഒന്നാമതായി എയുടെ അതേ മൂല്യം അവർ വായിച്ചു ഈ r1 അത് വായിക്കുന്നു r1 ഇവിടെ വായിക്കുന്നു അത് തന്നെയാണ് ഇത് സംഭവിക്കുകയാണെങ്കിൽ ട്രാൻസാക്ഷൻ 1 അത് ഒരു അർത്ഥത്തിൽ വായിക്കുകയും ട്രാൻസാക്ഷൻ 2 വായിക്കുകയും ചെയ്യും അപ്പോൾ ഇത് വ്യൂ ഇക്വിവലൻസ് പിന്തുടരുന്നില്ല ഇവ രണ്ടും വ്യൂ ഇക്വിവലൻസ് പിന്തുടരുന്നില്ല ട്രാൻസാക്ഷൻ 1 മൂല്യം വായിക്കുന്നു തുടർന്ന് അത് ട്രാൻസാക്ഷൻ 1 ആയിരിക്കണം ഇവിടെ വായിക്കുന്നത് ട്രാൻസാക്ഷൻ 1 അന്തിമ മൂല്യം എഴുതുകയാണെങ്കിൽ അത് സമാനമായിരിക്കണം തുടർന്നുള്ള r1 ഒരു പ്രശ്നമല്ല ഓരോ ഡാറ്റ ഇനത്തിനും നമ്മൾ ഇത് പരീക്ഷിക്കേണ്ടതുണ്ട് അതിനർത്ഥം ഇത് നമ്മൾ ഡാറ്റ ഇനം എയ്ക്കായി മാത്രമാണ് പരീക്ഷിച്ചത് ഡാറ്റാ ഇനം b യ്ക്കായി നമ്മൾ ഇത് പരിശോധിക്കേണ്ടതുണ്ട് ഡാറ്റ ഇനം b ആദ്യം വായിക്കുന്നത് r1 ആണ് തുടർന്ന് ഇത് ആദ്യം വായിക്കുന്നത് പ്രാരംഭ റീഡ് വ്യവസ്ഥകൾ ശരിയാണ് ഇപ്പോൾ നമുക്ക് അവസാന റൈറ്റ് വ്യവസ്ഥകൾ പരിശോധിക്കാം ഈ S ലും ഈ സീരിയൽ ഷെഡ്യൂളിലും w2 ആണ് എ യുടെ അവസാന റൈററ് വ്യവസ്ഥകൾ അത് വീണ്ടും w2 ആണ് അത് ബിക്ക് തുല്യമാണ് ഇത് w2 w2 എന്നിവയാണ് അതിനാൽ അതും ശരിയാണ് മൂന്നാമത്തെ വ്യവസ്ഥ മറ്റൊരു റൈററിലൂടെ നിർമ്മിക്കുന്ന ഓരോ റീഡും സ്ഥിരതയുള്ളതായിരിക്കണം അത് സമാനമായിരിക്കണം എന്തെല്ലാം വായനകളാണ് ഉത്പാദിപ്പിച്ചത് ട്രാൻസാക്ഷൻ 2 ന്റെ മൂല്യം ഒരു ട്രാൻസാക്ഷൻ 1 വായിക്കുന്നു ആ അവസ്ഥ ഇവിടെ ഉണ്ടായിരിക്കണം r2 വായിച്ചാൽ അത് ട്രാൻസാക്ഷൻ വഴി നിർമ്മിക്കപ്പെടേണ്ടതാണ് സമാനമായി r2 പിന്തുടരുന്നു ഇവിടെ റിട്ടേൺ ബൈ w1 എസ് w2 എഴുതിയത് r2 പിന്തുടരും അപ്പോൾ ഇത് ഈ ട്രാൻസാക്ഷന് വ്യൂ ഇക്വിവലൻറ്റാണ് s1 s2 ഇതിനർത്ഥം ഇത് സീരിയലൈസ് ചെയ്യാവുന്ന വ്യൂ ആണ് കാരണം ഇത് T1 T2 ട്രാൻസാക്ഷനുകൾക്ക് ഇക്വിവലൻറ്റായ വ്യൂ ആണ് അതാണ് ആദ്യത്തെ ഉദാഹരണം നമുക്ക് മറ്റൊരു ഉദാഹരണം എടുക്കാം ഇത് r1 പിന്നെ w2 എന്നിട്ട് w1 പിന്നെ w3 ഉണ്ട് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഇത് കോൺഫ്ലിക്റ്റ് സീരിയലൈസ് ചെയ്യാവുന്നതല്ല എന്നാൽ നമ്മൾ ചെയ്ത ഈ മുൻ ഉദാഹരണവും കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണ് നമുക്ക് T1T2 T3 ഉപയോഗിച്ച് പരിശോധിക്കാം എന്താണ് T1T2 T3 ഇത് r1 പിന്നെ w1 പിന്നെ w2 പിന്നെ w3 ഇനീഷ്യൽ റീഡ് കണ്ടീഷൻ ഇവിടെ ട്രാൻസാക്ഷൻ 1 വഴിയാണ് ഫൈനൽ റൈറ്റ് ഇവിടെ w3 ആണ് ചെയ്യുന്നത് ഷെഡ്യൂൾ S അല്ലെങ്കിൽT1T2T3 സീരിയൽ ഷെഡ്യൂൾ വഴി കൂടുതൽ വായനകളൊന്നുമില്ല മൂന്നാമത്തെ വ്യവസ്ഥയും ചെയ്യപ്പെടുന്നു ഇത് യഥാർത്ഥത്തിൽ സീരിയലൈസ് ചെയ്യാവുന്ന വ്യൂ ആണ് അത് ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഇത് സീരിയലായി കാണാവുന്നതാണെങ്കിലും കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റിയുടെ ഉദാഹരണം നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഇത് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ അല്ല കാരണം നമ്മൾ ഇവ രണ്ടും മാറ്റിയതിനാൽ ഈ കോൺഫ്ലിക്റ്റ് നമ്മൾ കൈമാറുന്നു ഇവിടെ അത് പ്രശ്നമല്ല എന്തുകൊണ്ട് ഇവിടെ സീരിയലിസബിലിറ്റി ഉപയോഗപ്രദമാകുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇത് ചിലപ്പോൾ സംഘർഷം സീരിയലൈസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഉപയോഗപ്രദമാകുന്നത് മധ്യത്തിലുള്ള രണ്ട് അവസ്ഥകൾ നോക്കുക w2 എന്നിട്ട് w1 ഉം w1 ഉം പിന്നെ w2 ഉം എന്നിരുന്നാലും ഒന്നും എഴുതുന്നതിൽ കാര്യമില്ല എന്തുകൊണ്ട് അത് പ്രശ്നമല്ല കാരണം ഇവക്ക് രണ്ടും അതീതമായി മൂന്നാമതൊരു w3 റൈറ്റ് ഉണ്ട് വ്യൂ ഇക്വിവലൻസിനുള്ള വ്യവസ്ഥ പറയുന്നു ഫൈനൽ റൈറ്റ് ഒന്നിനെയും ബാധിക്കരുത് ഫൈനൽ റൈറ്റ് രണ്ടും ട്രാൻസാക്ഷൻ വഴിയാണ് നിർമ്മിച്ചിരിക്കുന്നത് അവയെല്ലാം ശരിയാണ് ഇവിടെ ഒരു പ്രശ്നവുമില്ല നമ്മൾ കുറച്ച് സമയത്തിനുള്ളിൽ ഈ അവസ്ഥയിലേക്ക് വരും എന്നാൽ അതിനുമുമ്പ് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് എടുത്തുകാണിക്കാൻ മറ്റൊരു ഉദാഹരണം കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് മറ്റൊരു ഷെഡ്യൂൾ ആണെന്ന് കരുതുക ഇത് സീരിയൽ ചെയ്യാവുന്നതാണോ അല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കാം ഇത് r1 w1 w2 റീഡ് വ്യവസ്ഥകൾ എല്ലാം ശരിയാണ് എന്നിരുന്നാലും റൈറ്റ് ശരിയല്ല ഇത് w1 ആണ് ഇത് w2 ആണ് ഇത് ശരിയല്ല ഈ S T1T2 ന് തുല്യമായ വ്യൂ അല്ല ഇപ്പോൾ നമുക്ക് T2T1 ഉപയോഗിച്ച് പരിശോധിക്കാം T2T1 ആണ് w2 പിന്നെ r1 അവസാന റൈറ്റ് ഒന്നുതന്നെയാണെങ്കിലും സംഭവിക്കുന്നത് പോലെ പ്രാരംഭ റീഡ് ഒന്നുതന്നെയാണ് പക്ഷേ ഇത് സീരിയലായി കാണാനാകില്ല കാരണം ഈ റീഡ് മറ്റെന്തെങ്കിലും റൈറ്റിലൂടെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നിരുന്നാലും ഈ റൈറ്റ് നിർമ്മിക്കുന്നത് ഈ w2 ആണ് ഇത് അനുവദനീയമല്ല എല്ലാറ്റിനുമുപരിയായി ഇത് സീരിയലായി കാണാനാകില്ല ഈ രണ്ട് ഉദാഹരണങ്ങൾ തമ്മിലുള്ള നിർണായക വ്യത്യാസം താഴെ കൊടുക്കുന്നു ഇക്കാരണത്താൽ ഈ രണ്ട് കാര്യങ്ങൾക്കിടയിൽ ഒരു ഫൈനൽ റൈറ്റ് ഇവിടെയുണ്ട് ഈ രണ്ട് റൈറ്റും സൂപ്പർ സീഡ് ചെയ്യാൻ അനുവദിച്ചിട്ടുള്ള ഒരു ഫൈനൽ റൈറ്റ് ഉണ്ടായിരുന്നു ഈ ഫൈനൽ റൈറ്റ് വ്യവസ്ഥ രണ്ട് ഷെഡ്യൂളുകളിലും ഒരേപോലെ നിലനിൽക്കുന്ന മറ്റേതെങ്കിലും ട്രാൻസാക്ഷനാണ് അതുകൊണ്ടാണ് ഇത് കാണാത്തപ്പോൾ ഇത് സീരിയലായി കാണാനായത് സീരിയലിസബിലിറ്റി എന്താണെന്നു മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത് കൂടുതൽ വിശദമായി മനസ്സിലാക്കാൻ റഫർ സമയം 1104കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി നമുക്ക് കാണാം നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത് കോൺഫ്ലിക്റ്റ് സീരിയലൈസും വ്യൂ സീരിയലൈസും നമ്മൾ രണ്ട് ഉദാഹരണങ്ങൾ പരിഹരിക്കുന്നു ആദ്യ ഉദാഹരണം കോൺഫ്ലിക്റ്റ് സീരിയലൈസ് ചെയ്യാവുന്നതും വ്യൂ സീരിയലൈസും അണ് രണ്ടാമത്തേത് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ അല്ല മറിച്ച് വ്യൂ സീരിയലൈസ് അണ് മൂന്നാമത്തേത് കോൺഫ്ലിക്റ്റ് സീരിയലൈസ് ചെയ്യാവുന്നതോ വ്യൂ സീരിയലൈസ് ചെയ്യാവുന്നതോ ആയിരുന്നില്ല ഇത് യാദൃശ്ചികമല്ല നമുക്ക് താഴെ പറയുന്ന നിയമം ഉണ്ടായിരിക്കാം എല്ലാ കോൺഫ്ലിക്റ്റ് സീരിയലൈസ് ചെയ്യാവുന്ന ഷെഡ്യൂളും സീരിയൽ ചെയ്യാവുന്നതാണോ ഞാൻ s ന്റെ സീരിയലൈസ് ചെയ്യാവുന്നതിന്റെ ചുരുക്കമാണ് എന്തെങ്കിലും പൊരുത്തക്കേട് സീരിയലൈസ് ചെയ്യാവുന്നതാണെങ്കിൽ അത് വ്യൂ സീരിയലൈസ് ആയിരിക്കണം നിങ്ങൾക്ക് അത് ഔപചാരികമായി തെളിയിക്കാനാകും എന്നാൽ നിങ്ങൾ അൽപ്പം ചിന്തിക്കുകയും അതിന്റെ അവബോധം നോക്കുകയും ചെയ്താൽ ഇത് ശരിയാണെന്ന് നിങ്ങൾ കാണും എന്നിരുന്നാലും തിരിച്ചും ശരിയല്ല എന്നതിന്റെ ഒരു ഉദാഹരണം നമ്മൾ കണ്ടു ഇതിനർത്ഥം സീരിയൽ ചെയ്യാവുന്ന എല്ലാ ഷെഡ്യൂളുകളും വൈരുദ്ധ്യ സീരിയലൈസബിൾ അല്ലനമ്മൾ ഇതിനകം ഒരു ഉദാഹരണം കണ്ടു കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി വ്യൂ സീരിയലിസബിലിറ്റിനേക്കാൾ കർശനമായ അവസ്ഥയാണ് വ്യൂ സീരിയലിസബിലിറ്റിയുടെ പ്രയോജനം എന്താണെന്ന് നമുക്ക് കാണാൻ കഴിയും കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ അല്ലാത്ത ചില ഷെഡ്യൂളുകൾ ഉണ്ട് എന്നതാണ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി കർശനമായ അവസ്ഥയാണ് പക്ഷേ അവ സീരിയലൈസ് ചെയ്യാവുന്നവയാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി നടപ്പിലാക്കുകയാണെങ്കിൽ ആ ഷെഡ്യൂളുകൾ ഡാറ്റാബേസ് എഞ്ചിൻ അനുവദിക്കാൻ പോകുന്നില്ല ഒന്ന് നടപ്പിലാക്കുകയാണെങ്കിൽ ഡാറ്റാബേസ് എഞ്ചിൻ ഉപയോഗിച്ച് വ്യൂ സീരിയലിസബിലിറ്റി മാത്രമേ അനുവദിക്കാനാകൂ അവസാനം അത് പ്രശ്നമല്ല കാരണം അവസാനത്തെ എഴുത്തുകൾ ഒന്നുതന്നെയാണ് റൈറ്റുകളാൽ നിർമ്മിക്കപ്പെടുന്ന പ്രാരംഭ വായനകളും സമാനമാണ് എന്നാൽ വളരെ പ്രധാനമായി അവസാന രചനകൾ ഒന്നുതന്നെയാണ് എല്ലാം ഈ അന്തിമ എഴുത്തിലേക്ക് വരുന്നു അതിനാൽ അവസാനത്തെ റൈറ്റ് എല്ലാം വരുന്ന വലിയ പ്രധാനപ്പെട്ട അവസ്ഥയാണ് കൺസ്ട്രെയിൻഡ് റൈറ്റ് അസമ്പ്ഷൻ എന്ന രസകരമായ ഒരു ആശയം ഉണ്ട് കൺസ്ട്രെയിൻഡ് റൈറ്റ് അസമ്പ്ഷൻ ഓരോ എഴുത്തും അത് വായിച്ച മൂല്യത്താൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഒരു ട്രാൻസാക്ഷൻ i വഴി ഒരു എഴുത്ത് ഉണ്ടെങ്കിൽ അത് ഏത് മൂല്യമാണ് വായിച്ചത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അത് വായിച്ചതിന്റെ ഒരു പ്രവർത്തനമായിരിക്കണം ഒരു ട്രാൻസാക്ഷൻ എഴുതാൻ ശ്രമിക്കുന്നതിന് മുമ്പ് എഴുതുക അത് വായിക്കണം കാരണം എഴുത്ത് വായനയുടെ പ്രവർത്തനമാണ് മറുവശത്ത് ഇത് പാലിച്ചില്ലെങ്കിൽ അനിയന്ത്രിതമായ റൈറ്റ് നമുക്ക് ലഭിക്കും അതായത് ഒരു ട്രാൻസാക്ഷൻ വായിക്കാതെ എഴുതുന്നു അനിയന്ത്രിതമായ റൈറ്റുകളെ ചിലപ്പോൾ ബ്ലൈൻഡ് റൈറ്റ് എന്നും വിളിക്കുന്നു എന്തുകൊണ്ടാണ് ഇതിനെ ബ്ലൈൻഡ് റൈറ്റ് എന്ന് വിളിക്കുന്നത് കാരണം അത് അന്ധമായി എഴുതുന്നു അത് വായിച്ചതിനെക്കുറിച്ച് അത് ശ്രദ്ധിക്കുന്നില്ല അത് വായിക്കാൻ പോലും ആവശ്യമില്ല അതിനാൽ അത് എഴുതുന്നു ഈ അനിയന്ത്രിതമായ എഴുത്തുകൾ ബ്ലൈൻഡ് റൈറ്റ് ആണ് കൺസ്ട്രെയിൻഡ് റൈറ്റ് അസമ്പ്ഷൻ അനുവദനീയമല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി വ്യൂ സീരിയലൈസബിലിറ്റിക്ക് തുല്യമാണ് ഇത് ചിലപ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട് കൺസ്ട്രെയിൻഡ് റൈറ്റ് അസമ്പ്ഷൻ എന്നതാണ് ഇതിന് കാരണം ഉദാഹരണം നോക്കുക വ്യൂ സീരിയലൈസബിലിറ്റിയും കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം w1 നും w2 നും ഇടയിലുള്ള ഉദാഹരണത്തിൽ നമ്മൾ കണ്ടതുപോലെ ചില സീരിയലിസബിലിറ്റി പൊരുത്തക്കേടുകൾ എഴുതാൻ അനുവദിക്കും എന്നതാണ് കാരണം അവയിൽ ആരെയും ആശ്രയിക്കാതെ വെറുതെ എഴുതുന്ന ഒരു ഫൈനൽ റൈറ്റുണ്ട് അതാണ് ബ്ലൈൻഡ് റൈറ്റ് നമ്മൾ ബ്ലൈൻഡ് റൈറ്റ് നീക്കം ചെയ്യുകയാണെങ്കിൽ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി വ്യൂ സീരിയലൈസബിലിറ്റിക്ക് തുല്യമാണെന്ന് നമുക്ക് കാണിക്കാനാകും സീരിയൽ ചെയ്യാവുന്ന എന്നാൽ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ അല്ലാത്ത ഒരു ഷെഡ്യൂൾ ഉണ്ടെന്ന് കരുതുക അപ്പോൾ അത് സംഭവിക്കണം ആ ഷെഡ്യൂളിൽ ബ്ലൈൻഡ് റൈറ്റുകളുണ്ട് കാരണം വ്യൂ സീരിയലൈസബിളും കോൺഫ്ലിക്റ്റ് സീരിയലൈസബിളും തമ്മിലുള്ള ഒരേയൊരു വ്യത്യാസം ഷെഡ്യൂളുകൾ സീരിയലൈസ് ചെയ്യാവുന്നതും കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ അല്ലാത്തതുമായ ഷെഡ്യൂളുകൾ അനുവദിക്കുക എന്നതാണ് അതിനാൽ സീരിയൽ ചെയ്യാവുന്ന ഷെഡ്യൂളുകൾ കാണുക കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ അല്ലാത്തവയ്ക്ക് ബ്ലൈൻഡ് റൈറ്റ് അല്ലെങ്കിൽ അൺകൺസ്ട്രെയിൻഡ് റൈറ്റുകളോ ഉണ്ടായിരിക്കണം അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ അൺകൺസ്ട്രെയിൻഡ് റൈറ്റുകളും ബ്ലൈൻഡ് റൈറ്റുകളും വളരെ പ്രധാനമാണ് കൺസ്ട്രെയിൻഡ് റൈറ്റ് അസമ്പ്ഷന് കീഴിൽ നിയന്ത്രണങ്ങൾ മാത്രമേ എഴുതുകയുള്ളൂവെങ്കിൽ ബ്ലൈൻഡ് റൈറ്റുകൾ അനുവദനീയമല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി വ്യൂ സീരിയലൈസബിലിറ്റിന് തുല്യമാണ് അത് കോൺഫ്ലിക്റ്റിന്റെ രണ്ട് സീരിയലൈസ് ചെയ്യാവുന്ന ആശയങ്ങളെക്കുറിച്ചും വ്യൂ സീരിയലിസബിലിറ്റിനെക്കുറിച്ചും ആണ്